ശരീര ഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് എന്ന ഈ കോഴ്സിന്റെ ആദ്യത്തെ മോഡ്യൂളിലേക്ക് സ്വാഗതം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ശരീര ഭാഷ പ്രൊഫഷണൽ ആശയവിനിമയത്തിന്റെ ഒരു പ്രസക്ത ഘടകമാണ് ഒരു പോസിറ്റീവ് ശരീര ഭാഷ വിജയകരമായ രീതിയിൽ സ്വയം അവതരിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നു ഈ മോഡ്യൂളിൽ നമ്മൾ ശരീരഭാഷയുടെ അടിസ്ഥാന വ്യാഖ്യാനം പ്രസക്തി എന്നിവയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ശരീരഭാഷയുടെ പഠനം നമുക്ക് പ്രധാനമാണ് കാരണം അത് ഒരാൾ പറയുന്നതൂo അയാൾ സംവേദനം ചെയ്യുന്നതൂo തമ്മിലുള്ള പൊരുത്തക്കേട് വെളിപ്പെടുത്തുന്നു കാരണം സൂക്ഷ്മമായ ആവിഷ്കാരങ്ങളിലൂടെയും ബൃഹത്തായ ആവിഷ്കാരങ്ങളിലൂടെയുമാണ് മനുഷ്യരുടെ മനോഭാവവും വികാരങ്ങളും മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക വ്യക്തി വിനീതൻ ആണോ അഹങ്കാരി ആണോ ദയയുള്ളവനാണോ നിർബന്ധബുദ്ധിയാണോ വിഷാദത്തിൽ ആണോ അതോ ദേഷ്യത്തിലാണോ അക്ഷമൻ ആണോ ഉദാസീനനായി ആണോ എന്നെല്ലാം അറിയാൻശരീരഭാഷയുടെ ഈ സൂചനകൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവവും ഉദ്ദേശവും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും ഒരു പുസ്തകം വായിച്ച് അതിൻറെ അർത്ഥം മനസ്സിലാക്കുന്നതു പോലെ ശരീര ഭാഷ പഠിച്ച് ഒരു വ്യക്തിയെ വായിക്കാൻ നമുക്ക് സാധിക്കും ഒരാളുടെ വാച്യവും വാചികേതരവും ആയ സംവേദനങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് ശബ്ദം ആംഗ്യങ്ങൾ ശബ്ദ ക്രമീകരണം എന്നിവയെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് സത്യം മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള പ്രതികരണം അയാൾക്ക് നൽകാനും സാധിക്കും നോൺ വെർബൽ അഥവാ വാചികേതര ആശയവിനിമയത്തിൽ സൂക്ഷ്മവും ബൃഹത്തും ആയ ആവിഷ്കരണങ്ങൾ അഥവാ എക്സ്പ്രെഷൻസ് ഉണ്ട് ഈ മൈക്രോ മാക്രോ എക്സ്പ്രഷൻ അടിസ്ഥാനപരമായി സംവേദനം ചെയ്യുന്നത് നമ്മുടെ സ്പർശം ശബ്ദം കണ്ണുകൾ നോട്ടം എന്നിവയിലൂടെ ആണ് മൈക്രോ എക്സ്പ്രഷൻസ് ശരീര ഭാഷയുടെ ഒരു പ്രധാന ഘടകമാണ് ഉദാഹരണത്തിന് ഞാൻ ചിരിക്കുന്നു ചിരി കാണാം അപ്പോൾ അത് മാക്രോ എക്സ്പ്രഷൻ ആണ് എന്നാൽ മൈക്രോ എക്സ്പ്രഷൻ വളരെ ചെറിയ ക്ഷണികമായ ആവിഷ്കാരങ്ങളാണ് ഉദാഹരണത്തിന് സഹപ്രവർത്തകരെ കുറിച്ച് വിവരിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിനിമ വിവരിക്കാൻ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള ചില ശബ്ദ ലേഖനങ്ങൾ ഉണ്ട് ഈ ശബ്ദലേഖനങ്ങളിൽ പങ്കെടുത്തവർ അവരുടെ സഹപ്രവർത്തകരെ വളരെ നല്ല പദങ്ങൾ ഉപയോഗിച്ച് വിവരിക്കാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവരുടെ സൂക്ഷ്മ ആവിഷ്കാരങ്ങളിൽ നിന്ന് അവരുടെ ബന്ധങ്ങളും ഉദ്ദേശങ്ങളും വായിച്ചെടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരാൾക്ക് തൻറെ സഹപ്രവർത്തകയെ ഇഷ്ടം ആണോ അല്ലയോ അവരുടെ ഇടയിൽ ഏതു തരം സൌഹൃദമാണുള്ളത് അല്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുതയാണോ ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് എൻറെ കണ്ണിനു താഴെയുള്ള ഉള്ള പേശിയിൽ ഒരു ചെറിയ ഇളക്കം അല്ലെങ്കിൽ എൻറെ ചിരി എന്തെങ്കിലും സംവേദനം ചെയ്യാം ശ്രമിച്ചേക്കാം എന്നാൽ എൻറെ കണ്ണുകൾ ഈ വികാരത്തിന്നു പരസ്പര വിരുദ്ധം ആയേക്കാം 1985 ൽ പോൾ എക്ക്മാൻ ആണ് മൈക്രോ എക്സ്പ്രഷൻസ് എന്ന പദം ആദ്യമായി ടെല്ലിങ് ലൈസ് എന്ന തൻറെ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്

ഉദാഹരണത്തിന് നമ്മുടെ വസ്ത്രം നമ്മൾ അണിഞ്ഞിരിക്കുന്ന സുഗന്ധം ആഭരണങ്ങൾ എന്നിവ എന്നാൽ നമുക്കറിയാം മത്സരബുദ്ധിയുള്ള ഇന്നത്തെ ലോകത്തിൽ ഇവയെല്ലാം ശരീര ഭാഷയുടെ ഭാഗമാണ് എന്ന് മാധ്യമങ്ങളുടെ സാന്നിധ്യം വളർന്നു വരികയും ബിസിനസ് ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ മത്സരം കൂടുകയും ചെയ്യുന്നതിനാൽ ശരീര ഭാഷയെ കുറിച്ചുള്ള പഠനം വളരെ പ്രാധാന്യമുള്ളതായി മാറിയിരിക്കുന്നു മാധ്യമങ്ങളുടെ അതിപ്രസരവും പ്രത്യേകിച്ച് താരങ്ങളോടുള്ള അഭിനിവേശം ശരീരഭാഷയെ കുറിച്ചുള്ള നമ്മുടെ ബോധം കൂട്ടിയിരിക്കുന്നു മാസികകളും ടിവി ചാനലുകളും താരങ്ങളുടെ ശരീര ഭാഷയെ കുറിച്ച് എണ്ണമറ്റ കഥകൾ പ്രസിദ്ധീകരിക്കുന്നത് നമുക്ക് കാണാം നടി നടൻമാർ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ എന്നിവരുടെ ശരീര ഭാഷ നിരന്തരമായി പ്രചരിക്കുന്നു മഡോണ ഒരു എൻ ബി സി ടെലിവിഷൻ ചാനൽ പരിപാടിയിൽ തന്റെ ഗർഭത്തെ കുറിച്ച് നുണ പറയുകയാണോ എന്നറിയാൻ ഒരു എഫ് ബി ഐ ഏജൻറ് അവരുടെ ഇമ വെട്ടുന്നത് പഠിക്കാൻ ശ്രമം നടത്തി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം വളർന്നു വരുന്ന മാധ്യമ ബോധവും സാങ്കേതിക വളർച്ചയും ശരീര ഭാഷ എന്ന വിഷയത്തിന്റെ പ്രസക്തി വളരെയധികം കൂട്ടിയിരിക്കുന്നു പല ഡിക്ഷ്ണറികൾ പല രീതിയിൽ ശരീര ഭാഷയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരുന്നതായി കാണാം 2012 ൽ പുറത്തിറങ്ങിയ കോളിൻസ് ഇംഗ്ലീഷ് ഡിക്ഷ്ണറി പന്ത്രണ്ടാം എഡിഷൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു "ബോധത്തോടെയോ ഉപബോധത്തോടെയോ ഉള്ള ശാരീരിക ആംഗ്യങ്ങൾ അല്ലെങ്കിൽ അംഗ വിന്യാസം കൊണ്ട് അവാച്ചികം ആയി വിവരം പകർന്നു കൊടുക്കുന്ന രീതി" Nonverbal imparting of information by means of conscious or subconscious bodily gestures and postures etc ഇവിടെ നമുക്ക് കാണാം ഈ വ്യാഖ്യാനം മൈക്രോ മാക്രോ സിഗ്നലുകളുടെ ബോധ ഉപബോധ തലത്തിലൂടെ ഉള്ള ആശയ വിനിമയത്തിന് ഊന്നൽ നൽകിയിരിക്കുന്നുയഥാർത്ഥ വികാരങ്ങൾ വളരെ പെട്ടെന്നു പുറത്തു വരും ഒന്നോ രണ്ടോ നിമിഷത്തേക്ക് മാത്രമേ അഫക്ട് ഡിസ്പ്ലെയ്സ് ഉപകരിക്കയുള്ളു 2012 ൽ തന്നെ പുറത്തിറങ്ങിയ വെബ്സ്റ്റേഴ്സ് ന്യൂ കോളേജ് ഡിക്ഷണറി Webster's New World College Dictionary അഞ്ചാമത്തെ എഡിഷൻ ഇങ്ങനെ വിവരിക്കുന്നു "ആംഗ്യങ്ങൾ ശാരീരിക ചലനങ്ങൾ മുഖ ഭാവങ്ങൾ തുടങ്ങി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനു ഉതകുന്നവ അല്ലെങ്കിൽ സംസാരത്തെ അനുഗമിക്കുന്നത്" "Gestures unconscious body movements facial expressions etc which serve nonverbal communication or as accompaniments to a speech"ഹെഡ്വിഗ് ലൂയിസ് ശരീരഭാഷയ നിർവചിച്ചിരിക്കുന്നത് "വ്യക്തിപരമായ ആയ വികാരങ്ങൾ വിചാരങ്ങൾ നിലപാടുകൾ എന്നിവയെ ശരീരചേഷ്ഠകൾ അംഗന്യാസം ദൂരം പദവി എന്നിവകൊണ്ടു ബോധപൂർവ്വമോ അല്ലാതെയോ അധികവും ഉപബോധകമയി സംഭാഷണത്തിൻറെ അകമ്പടിയോടെയോ അല്ലാതെയോ ആശയവിനിമയം ചെയ്യുന്ന രീതി

മേൽപ്പറഞ്ഞ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും സമ്പൂർണമായത് ഹെഡ്വിഗ് ലൂയിസ്ൻറെ വ്യാഖ്യാനമാണ് ശരീര ഭാഷ അല്ലെങ്കിൽ വാചികേതര ആശയവിനിമയം വാക്കുകളോട് കൂടിയോ അല്ലെങ്കിൽ വാക്കുകളില്ലാതെയും ഉപയോഗിക്കാം ഉദാഹരണത്തിന് തിരക്കുള്ള ഒരു മുറിയിൽ ഒരു സുഹൃത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ നമുക്ക് നിശബ്ദമായി ചില ആംഗ്യങ്ങൾ കാണിക്കാം എന്നാൽ ഒരു ആശയവിനിമയത്തിൻറെ മുഴുവൻ ചിത്രം ലഭിക്കണമെങ്കിൽ അതിനെ നമ്മൾ വാക്കുകളുടെയും വാചികേതര ഖടകങ്ങളുടെയും ആകെത്തുകയായി കാണേണ്ടതാണ് നമ്മൾ ആ വാക്യം ഒരു ഖണ്ഡികയിൽ ചേർക്കുമ്പോൾ അതിനു സാന്ദർഭികത കൈവരുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻറെ മുഖത്തെ പ്രതികരണങ്ങൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അദ്ദേഹം നമ്മെ എത്രത്തോളം ഗ്രഹിച്ചു എന്നും ഇനി എത്ര വിശദീകരണം ആവശ്യമുണ്ട് എന്നുo കാരണം നമ്മൾ പറയാനുദ്ദേശിക്കുന്നത്തിൽ പകുതിയിലധികവും വാക്കുകളിലൂടെ അല്ല മറിച്ച് വാചികേതരമായി ആണ് സംവേദനം ചെയ്യപ്പെടുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പഠനം വളരെ വൈകിയാണ് തുടങ്ങിയത് എങ്കിലും മനുഷ്യർ അതിൻറെ പ്രസക്തിയെക്കുറിച്ച് അറിവുള്ളവർ ആയിരുന്നു സാഹിത്യത്തിലും കലയിലും ഇതിനെക്കുറിച്ചുള്ള പല പരാമർശങ്ങൾ കാണാം ഷേക്സ്പിയർ മുതൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള അറിവ് തിരിച്ചറിയാം ഷേക്സ്പിയർ കണ്ണുകളിലെ ഭാവങ്ങളെ കുറിച്ച് പ്രത്യേകംഉദാഹരണത്തിന് മച്ച് അഡോ എബൌട്ട് നത്തിങ് എന്ന നാടകത്തിൽ അദ്ദേഹം പറയുന്നു "അവൻറെ കണ്ണുകൾ ഞാൻ കാണട്ടെ എന്നാൽ ഇനി അതുപോലെ മറ്റൊരുവനെ കാണുമ്പോൾ എനിക്ക് അയാളെ ഒഴിവാക്കാമല്ലോ

അപ്പോൾ നമുക്ക് കാണാം റെനൈസ്സൻസ് കാലഘട്ടം മുതൽ ശരീരഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചുo വിവരങ്ങളും വികാരങ്ങളും ആശയവിനിമയം ചെയ്യുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചും ആളുകൾ ബോധവാന്മാരായിരുന്നു നിരവധി കലാകാരൻമാരും ചിത്രകാരന്മാരും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻറെ ഈ സാധ്യത ഉപയോഗിച്ചിരുന്നതായി കാണുന്നു ഇവിടെ ഞാൻ പരാമർശിക്കുന്നത് കരവാഗിയോ എന്ന ഇറ്റാലിയൻ പെയിൻറ്ർ 16 17നൂറ്റാണ്ടിൽ വരച്ച "ദി കാർഡ്ഷാർപ്സ്" എന്ന പെയിൻറിംഗ് ആണ്

ഈ കാണുന്നതു മൈക്കെലാഞ്ചലോയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചുമർ ചിത്രം ആണ് 1508 1512 ൽ വരച്ച ഇത് സിസ്റ്റീൻ ചാപ്പലിൻറെ മേൽക്കൂരയുടെ ഭാഗമാണ് ആ വിരലുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ചിത്രകാരൻ സംവദിക്കാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസിലാക്കാം എന്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നില്കുന്നത് എന്റെ നാട്ടുകാരനായ ഒരു ചിത്രകാരൻ വരച്ച ചിത്രമാണ് ഇത് വിശ്വനാഥ് ദുരന്ദർ എന്ന ചിത്രകാരൻ 19 ആം നൂറ്റാണ്ടിൽ വരച്ച ഒരു ചിത്രമാണ് ഒരു ഹിന്ദു വിവാഹത്തിന്റെ ചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുക്കുന്നത് ഇതിൽ ഓരോ വ്യക്തിയുടെയും മുഖം ഭിന്നമാണ് വസ്ത്രങ്ങൾ വളരെ സങ്കീർണമായി വിസ്തരിച്ചു അവതരിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഓരോ വ്യക്തിയുടെയും ശരീര ഭാഷ വ്യത്യസ്തത പുലർത്തുന്നു ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രവും ഓരോ കഥ പറയുന്നു നമുക്ക് അവരുടെ ഉദ്ദേശ്യങ്ങളും സെൻസിറ്റിവിറ്റി സാമൂഹിക സ്ഥിതി എന്നിവ ചിത്രകാരന്റെ വിദഗ്ധമായ ശരീര ഭാഷ രചനയിലൂടെ മനസിലാക്കാം സാഹിത്യ മണ്ഡലത്തിന് പുറത്തും ശരീര ഭാഷയെ കുറിച്ചുള്ള അറിവ് വളർന്നു കൊണ്ടിരിക്കുന്നു റോമൻ വാഗ്മികൾ ഇത് ഉപയോഗിച്ചിരുന്നു പ്രത്ത്യേകിച്ചു സിസെറോയും ക്വിന്റില്ലനും പ്രസംഗം ആംഗ്യങ്ങൾ ശബ്ദം എന്നിവയുടെ പൊരുത്തത്തെ കുറിച്ചു പറയുന്നു ആരംഭ ദിശയിൽ ആയിരുന്ന അന്നത്തെ ജനാധിപത്യത്തിന് ഇത് വളരെ പ്രസക്തമായിരുന്നു 18 19 ആം നൂറ്റാണ്ടിലെ യൂറോപ്യൻ പ്രസംഗകല പ്രസ്ഥാനം ശരീര ഭാഷയ്ക്ക് ഊന്നൽ കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ ദി എക്സ്പ്രെഷൻസ് ഓഫ് ദി ഇമോഷൻസ് ഇൻ മാൻ ആൻഡ് അനിമൽസ് എന്ന പുസ്തകം 1872 ൽ ആണ്അദ്ദേഹത്തിന്റെ പ്രസ്താവങ്ങൾ കൂടുതലും അനുഭവ വിവരണങ്ങളിൽ അടിസ്ഥാനം ആക്കി ആണെങ്കിലും നമുക്കറിയാം 1872 ഡാർവിൻ നടത്തിയ പ്രസ്താവനകൾ പലതും ആധുനിക ശാസ്ത്രീയ പഠനങ്ങളിൽ എങ്കിലും ശരീര ഭാഷ ശാസ്ത്രത്തിന്റെ ക്രോഡീകരിച്ച അക്കാദമിക പഠനം തുടങ്ങുന്നത് 20 ആം നൂറ്റാണ്ടിൽ മാത്രമാണ് 1940 കളുടെ അന്ത്യത്തിൽ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി പ്രൊഫെസ്സർ റേ ബേർഡ്വിസ്റ്റൽ ആണ് വാചികേതര ആശയവിനിമയത്തെ കുറിച് പഠിക്കുന്നത് അദ്ദേഹം ഒരു നരവംശശാസ്ത്രജ്ഞൻ ആയിരുന്നു നമ്മൾ ഇന്ന് ശരീര ഭാഷ പഠനത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും പ്രൊഫെസ്സർ റേ ബേർഡ്വിസ്റ്റലും അദ്ദേഹത്തിന്റെ സഹ ഗവേഷകരും കണ്ടുപിടിച്ചവയാണ് 1950 കളിൽ ജോർജ് എൽ ട്രാജർ പരലിംഗ്വിസ്റ്റിക്സ് എന്ന പദം ഉപയോഗിച്ചു

അതുകൊണ്ടു തന്നെ അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ റേ ബേർഡ്വിസ്റ്റൽനെ വളരെ സഹായിച്ചു വാചികേതര ആശയവിനിമയത്തിന്റെ സ്വഭാവവും സാധ്യതകളും അറിയാനായി റേ ബേർഡ്വിസ്റ്റലും ആൽബർട്ട് മെഹ്റാബിയനും ചേർന്നു ഒരു ഗവേഷണശാലയിലെ നിയന്ത്രിതമായ സാഹചര്യത്തിൽ വ്യക്തികളുടെ പ്രതീകരണങ്ങൾ പഠിച്ചു

അവർ ഒരിക്കലും ശരീര ഭാഷ എന്ന പദം ഉപയോഗിച്ചില്ല അവർ കൂടുതലും വാചികേതര ആശയവിനിമയം അല്ലെങ്കിൽ മറ്റു പദങ്ങൾ ആണ് ഉപയോഗിച്ചത് 1970 ൽ പുറത്തിറങ്ങിയ ജൂലിയസ് ഫാസ്റ്റിന്റെ ബോഡി ലാംഗ്വേജ് എന്ന പുസ്തകം ഇതിനെ വളരെ ജനപ്രീതി ഉള്ള ഒരു വാക്കാക്കി മാറ്റി ചിലപ്പോൾ തലക്കെട്ട് പുസ്തകത്തിനേക്കാൾ പ്രസിദ്ധമാകാറുണ്ടല്ലോ ഐ ആം ഓക്കേ യു ആർ ഓക്കേ I'm Ok You're Ok എന്ന പുസ്തകം പോലെ പക്ഷെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം നിശബ്ദത സംവേദനം ചെയ്യാത്ത പലതും ശരീര ഭാഷ വിളിച്ചറിയിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ശരീര ഭാഷയുടെ പ്രാധാന്യം പ്രൊഫസർ റേ ബേർഡ്വിസ്റ്റലും ആൽബർട്ട് മെഹ്റാബിയനും ഏകദേശം ഒരു മില്യൺ വാചികേതര സൂചനകളും സങ്കേതങ്ങളും പഠിച്ചു റെക്കോർഡ് ചെയ്തു ഒരു സന്ദേശത്തിന്റെ ആകെ ഫലം വാച്യ ഭാഷയുടെയും പാരാലാങ്ഗ്വേജിന്റെയും ശരീര ഭാഷയുടെയും സമ്മേളനം ആണെന്ന് മെഹ്റാബിയൻ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വാച്യ ഭാഷ 7വും പാരാലാങ്ഗ്വേജ് അഥവാ സ്വരം പദങ്ങളുടെ രൂപഭേദങ്ങൾ എന്നിവ 35 വും ശരീര ഭാഷ അതായത് ആംഗ്യങ്ങൾ അംഗ വിന്യാസങ്ങൾ നോട്ടം എന്നിവ 58 വുംപിന്നീട് ഇതെല്ലം ഇത്ര കർക്കശമായി വിഭജിക്കാനാവില്ല എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞെങ്കിലും ഏത് മുഖാമുഖ സംഭാഷണങ്ങളിലും വാച്യമായ ഉള്ളടക്കം ഏറ്റവും നിസ്സാരവും ശരീരഭാഷ കായിക ഭാഷ മുഖഭാവങ്ങളുടെ ചലനാത്മകത പാരാലാങ്ഗ്വേജ് എന്നിവ കൂടുതൽ പ്രസക്തവും ആകുന്നു ഈ മൊഡ്യൂളിൽ ഞാൻ ശരീര ഭാഷയുടെ 9 ഭാഗങ്ങൾ ആണ് വിശദീകരിക്കുന്നത് അതിനാൽ ഒന്നോ രണ്ടോ ആംഗ്യങ്ങൾ കണ്ടു പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എത്തുന്നത് മണ്ടത്തരമാകാം ശരീര ഭാഷയുടെ ആദ്യത്തെ ഭാഗം പ്രോക്സിമിക്സ് ആണ് പ്രോക്സിമിക്സ് എന്നാൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നവർ തമ്മിൽ സൂചന കോഡ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പാലിക്കുന്നഇത് കൂടാതെ പ്രോക്സിമിക്സ് പല സാമൂഹിക സാംസ്കാരിക ഇടങ്ങളുടെ സജ്ജീകരണം കൂടി പഠിക്കുന്നു രണ്ടാമത്തെ വിഭാഗം ഒകുലിസിക്സ് ആണ് എന്നാൽ കണ്ണിന്റെ ചലനങ്ങളുടെ പഠനം കണ്ണുകളുടെ പെരുമാറ്റം കണ്ണുകളുടെ ഭാഷ അല്ലെങ്കിൽ ചലനം ഇതിൽ തന്നെ ഇടംകയ്യന്മാരും വലംകൈയ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്നിവയുടെ പഠനവുമുണ്ട് പല തരം നോട്ടങ്ങളും അവയുടെ വിശദീകരണവും ഇന്നത്തെ തൊഴിൽ മേഖലകളിൽ വളരെ പ്രധാനം ആണ് മൂന്നാമത്തെ വിഭാഗം ആണ് ഹാപ്റ്റിക്സ് ഇത് സ്പർശനത്തെ കുറിച്ചുള്ള പഠനമാണ്

ഈ ചിത്രത്തിൽ എങ്ങനെ ഒരേ തരo സ്പർശനം പല തരത്തിലുള്ള വികാര വിചാരങ്ങൾ സംവേദനം ചെയ്യുന്നു എന്ന് നിങ്ങൾക് കാണാം നാലാമത്തെ വിഭാഗം ആണ് കനീസിക്സ് വ്യക്തികളുടെ ചലനത്തിലെ ശാരീരിക ആംഗ്യങ്ങളും നിൽപ് അല്ലെങ്കിൽ അംഗവിന്യാസം എന്നിവയുടെ പഠനമാണ് കനീസിക്സ് കനീസിക്സ്ന്റെ 3 ഭാവങ്ങൾ ആണ് എംബ്ലംസ് ഇലസ്ട്രേറ്റർസ് പിന്നെ അഫക്ട് ഡിസ്പ്ലെയ്സ്വികാര പ്രകടനം സ്ഥിരമായ ചിഹ്നങ്ങളുടെ ക്രോഡീകരിച്ച അർത്ഥമാണ് എംബ്ലംസ് ഉദാഹരണത്തിന് ഒരു നീന്തൽ വിദഗ്ദ്ധന്റെ വസ്ത്രത്തിന് ഒരു സ്ഥിരമായ ക്രോഡീകരിച്ച അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസ്കാരന്റെ ചിഹ്നങ്ങൾ ബധിരയുടെയോ മൂകരുടെയോ ഭാഷ എല്ലാം ഉദാഹരണങ്ങൾ ആണ് അത് പോലെ ഒരു ചിരിക്കോ ഒന്ന് പുരികം ചുളിക്കുന്നതിനോ പല അർഥങ്ങൾ ഉണ്ടാകാം ഇത് സ്ഥിരമായ സിംബലുകളുടെ പഠനം ആയതിനാൽ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രികരിക്കുന്നില്ല മറ്റു രണ്ട് വിഭാഗങ്ങൾ ശ്രദ്ധിക്കാം എന്താണ് ഇലസ്ട്രേറ്റർസ് നമ്മൾ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നത് സംവേദനം ചെയ്യുന്ന സൂക്ഷ്മവും ബ്രഹദ്തും ആയ ചിഹ്നങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ അതെ എന്ന് പറയുമ്പോൾ നിർവികാരമായി അതെ എന്ന് ഒരു വ്യക്തിക്കും ശരീര ഭാഷയുടെ ഘടകങ്ങൾ കൂടാതെ ആശയവിനിമയം ചെയ്യാൻ സാധിക്കില്ല ബഹിർമുഖരായ ആളുകൾ വളരെ അനായാസമായി ശരീര ഭാഷ ഉപയോഗിക്കുന്നു എന്നാൽ സംസാരിക്കുമ്പോൾ ശരീര ഭാഷ ഉപയോഗിക്കാത്ത ഒരാൾ വളരെ വിചിത്രമായ ഒരു കാഴ്ച ആയിരിക്കും അഫക്ട് ഡിസ്പ്ലെയ്സ് ഒരു തരം ഇലസ്ട്രേറ്റർ ആണ് വ്യത്യാസം എന്തെന്നാൽ ഇലസ്ട്രേറ്റർ ഒരാളുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അഫക്ട് ഡിസ്പ്ലെയ്സ് നമ്മെ നുണ പറയാൻ അനുവദിക്കുന്നു ചില സാമൂഹിക അവസരങ്ങളിൽ നയപരമായ ഒരു നുണ അനുവദനീയമായേക്കാം നിങ്ങൾ ഒരു സുഹൃത്തിനെ സന്ദർശിക്കുമ്പോൾ അവർ നിങ്ങൾക് തീരെ മോശം സ്വാദുള്ള ഒരു കേക്കോ ബിസ്ക്കറ്റോ വിളമ്പിയേക്കാം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് പോലെ തന്നെ ഇല്ല എന്ന് നിർവികാരായി പറയില്ല മറിച് ഇല്ല എന്ന് പറയും അപ്പോൾ നിങ്ങൾ അത് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുഖത്തെ കൃത്രിമ ചിരി വ്യക്തമാകും കേക്ക് നിങ്ങൾക് ഇഷ്ടപ്പെട്ടില്ല എന്നും എന്നാൽ അത് കൊടുത്തതിനു പിന്നിലെ സദുദ്ദേശം നിങ്ങൾ അഭിനന്ദിക്കുന്നു എന്നും ഇങ്ങനെ ചില നയപരമായ നുണകൾ സമൂഹത്തിൽ ആവശ്യമാണ് ഇതാണ് അഫക്ട് ഡിസ്പ്ലെയ്സ് എന്നാൽ തുടർച്ചയായി ഇവ ഉപയോഗിച്ച് നമ്മുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചു വയ്ക്കാൻ ആകില്ല

പാരാലാങ്ഗ്വേജ് എന്നാൽ ശബ്ദവുമായി ബന്ധപെട്ടതെല്ലാം വാക്കുകളുടെ അർഥം ഒഴിച്ച് ഒരേ വാക്ക് പല രീതിയിൽ ഉച്ചരിച്ചു നമുക്ക് പല അർഥങ്ങൾ നൽകാം ഒരാൾ ക്ലാസ്സിൽ വൈകി വന്നാൽ അധ്യപാകൻ അയാളെ പ്രവേശിപ്പിച്ചേക്കാം എന്നാൽ പാരാലാങ്ഗ്വേജ് വഴി സ്വന്തം വികാരം വ്യക്തമാക്കിയിരിക്കും കടന്നു വരൂ ആഹ് കയറി വരൂ എന്നെല്ലാം നമുക്ക് പറയാം എന്നാൽ വിവിധ മുഖഭാവങ്ങൾ ഉപയോഗിച്ച നീരസം വെളിപെടുത്താം ശബ്ദ വ്യതിയാനത്തിലൂടെ നമുക്ക് ദേഷ്യമോ വിരോധാഭാസമോ വെളിപെടുത്താം ചിലപ്പോൾ ഇത് കൃത്രിമം ആയേക്കാം എന്നാൽ മിക്കവാറും ഇത് സ്വാഭാവികമാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടിയിരുന്ന സന്ദർഭങ്ങളിൽ നിശബ്ദത പുലർത്തുന്നതിനെ കുറിച്ചും പാരാലാങ്ഗ്വേജ് പഠിക്കുന്നു സമയത്തിന്റെയും ആശയവിനിമയത്തിന്റെയും പഠനമാണ് ക്രൊനീമിക്സ് ഒരു വ്യക്ത്തി എന്നെ നിലയിൽ ഒരു സമൂഹം എന്ന നിലയിൽ സമയത്തിന്റെ ഒരു സാംസ്കാരിക വ്യാഖ്യാനം തന്നെ നമുക്കുണ്ട് സമയത്തിന്റെ ഈ വശങ്ങൾ ക്രൊനീമിക്സ് ഇൽ നമ്മൾ പഠിക്കും ക്രൊമാറ്റിക്സ് നിറങ്ങളുടെ പഠനം ആണ് പ്രത്ത്യേകിച് നിറങ്ങളുടെ സാമൂഹിക സ്വഭാവത്തിന്റെ പഠനം നിറങ്ങൾ ചില തരം ആശയങ്ങൾ സംവേദനം ചെയ്യുന്നു ഇതിനെ കുറിച്ചുള്ള പഠനം ആണ് ക്രൊമാറ്റിക്സ് ഓൾഫാക്റ്റിക്സ് ഗന്ധങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ള പഠനം ആണ് ഒരു ഗന്ധം നല്ലതോ മോശമോ ആകാം ഇതൊരു വ്യക്തിഗത പരിഗണന ആകാം എന്നാൽ ഇത് കൂടുതലും സാമൂഹിക സാംസ്കാരിക തിരഞ്ഞെടുപ്പ് ആണെന്ന് നാം മനസിലാക്കി വരുന്നു ചില സംസ്കാരങ്ങളിൽ ശരീരത്തിൽ സുഗന്ധം അണിയുന്നത് നിർബന്ധമാണെങ്കിൽ മറ്റു ചിലതിൽ ഇത് മോശമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഇതൊരു വ്യക്തിഗത പ്രസ്താവന ആണ് എന്നാൽ അതിലുപരി ഇതൊരു സാമൂഹിക സാംസ്കാരിക പ്രസ്താവന കൂടി ആകുന്നു ശരീര ഭാഷ പഠനത്തിന്റെ ഒമ്പതാമത്തെ വിഭാഗമാണ് ആർട്ടിഫാക്ട്സ് ചമയം വേഷം ഇത് ഒരാളുടെ വസ്ത്രധാരണ ശൈലി ചമയo ആഭരണങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ഒരാളുടെ വ്യക്തിത്വം വികാരങ്ങൾ എന്നിവ പഠിക്കുന്നു ഇവ യഥാർത്ഥത്തിൽ ശരീര ഭാഗങ്ങൾ അല്ലെങ്കിലും വ്യക്തിതത്വിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വിപുലീകരണം ആയി ഇതിനെ കാണാം ഈ സ്ലൈഡ് ശ്രദ്ധിച്ചാൽ ശരീര ഭാഷയുടെ അർഥം നമുക്ക് വ്യക്തം ആകും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും മേധാവി ഒഴികെ ഉപേക്ഷ ഭാവത്തിൽ ആണ് നമ്മൾ വാക്കുകളെ അവഗണിച്ചാൽ വെറും 50 ആശയവിനിമയം മാത്രം നടക്കുന്നുള്ളൂ

ഇവിടെ നമ്മൾ വാക്കുകളിലൂടെ വിനിമയം ചെയ്യുന്ന സന്ദേശം മാത്രമല്ല കാണുന്നത് മറിച് ഏത് തരo വാചികേതര തലങ്ങൾ ആണ് ആശയത്തിന്റെ സ്രോതസ് അഥവാ സന്ദേശം അയക്കുന്നവനും അതിന്റെ സ്വീകർത്താവ് ശ്രോതാവും ഉപയോഗിക്കുന്നത് എന്ന് കൂടി ആണ് ഇത് ചിലപ്പോൾ മനഃപൂർവം ആകാം അല്ലായിരിക്കാം എങ്കിലും മിക്കവാറും ഇത് മനപൂർവം അല്ല ശ്രദ്ധിച്ചാൽ അറിയാം അധികവും ഒരു വക്താവ് തന്റെ ശരീര ഭാഷയെ കുറിച്ച ബോധവാനല്ല എന്നാൽ ഇത് വെറും 2 3 മിനിറ്റുകളെ നമുക്ക് സാധ്യമാകുകയുള്ളൂ അത് കൊണ്ടാണ് മിക്ക പ്രസംഗ മത്സരങ്ങളും 3 മിനിറ്റുകളാക്കി ചുരുക്കിയിരിക്കുന്നത് അതെ സമയം നമ്മുടെ ശരീര ഭാഷയും ഒരു സാമൂഹിക സാംസ്കാരിക ഉത്പന്നം ആണ് ശരീര ഭാഷയുടെ പാരസ്പര്യ സാംസ്കാരിക തലങ്ങൾ വളരെഈ സാംസ്കാരിക വ്യതിയാനങ്ങൾ നമ്മുടെ ചർച്ചയുടെ ഒരു പ്രധാന ഘടകമാണ് നമുക്കറിയാം വളരെ അധികം മത്സര ബുദ്ധിയുള്ള നമ്മുടെ തൊഴിലിടങ്ങളിൽ ശരീര ഭാഷ കൂടുതൽ പ്രസക്തമാണ് ഓരോ തൊഴിലിന്റെയും സ്വഭാവവും ഡിമാൻഡും വർധിക്കുമ്പോൾ വ്യക്തികളുടെ ഉദ്ദേശങ്ങൾ മനസിലാക്കാനും ദിശാബോധം വളർത്താനും ശരീര ഭാഷ നമ്മെ സഹായിക്കുന്നു ഇത് ഒരു രോഗിയുടെ കൌൺസിലിങ് ആകട്ടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളുടെ പരിചരണം ആകട്ടെ ഒരു സ്കൂൾ ടീച്ചറോ പോലീസ്കാരനോ വക്കീലോ മാനേജരോ എന്നല്ല നമ്മൾ യൂണിവേഴ്സിറ്റി അധ്യാപകരോ ആകട്ടെ എല്ലാവർക്കും ആവശ്യമാണ് ശരീര ഭാഷയുടെ പരിജ്ഞാനം തെറ്റിദ്ധാരണകളും ശത്രുതകളും ഒഴിവാക്കാൻ നമ്മെ സഹായിക്കും കൂടാതെ നമ്മൾ നല്ല ഒരു ശ്രോതാവായി മാറും കാരണം വാക്കുകളിലൂടെ സംവേദനം ചെയ്യുന്ന അർത്ഥം മാത്രമല്ല മറിച്ചു വാചികേതര ഘടകങ്ങളിലൂടെ സംവേദനം ചെയ്യുന്ന അർത്ഥവും നമ്മൾ ശ്രദ്ധിക്കുന്നു അതിനാൽ പല തൊഴിൽ മേഖലകളിലും ശരീര ഭാഷയുടെ പരിജ്ഞാനം വളരെ നിർണായകം ആണ് ശരീര ഭാഷയുടെ പരിജ്ഞാനം മുഖ്യമായിരിക്കെ തന്നെ ശരീര ഭാഷയെ അതിന്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടത് അത്യാവശ്യമാണ് വ്യക്തിഗത വ്യത്യാസങ്ങൾ നിലവിലുണ്ട് നമ്മുടെ ശരീര ഭാഷ മറ്റൊരാളുടേതല്ല ഉദാഹരണത്തിന് ജപ്പാനിൽ ശ്രോതാക്കളെ പ്രത്യേകിച്ചു സ്ത്രീകളെ വക്താവിന്റെ കഴുത്തിലേക്ക് ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്നു കണ്ണുകൾ ഉടക്കാതിരിക്കാൻ വേണ്ടിയാണിത് ചൈനയിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഒരാളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് ഒഴിവാക്കുന്നു എന്നാൽ യൂ എസ് എ യിൽ ശ്രോതാക്കളെ വക്താക്കളുടെ കണ്ണുകളിലേക്കു നോക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു അതെ സമയം നമുക്കറിയാം മാറ്റമില്ലാത്ത ചില സാംസ്കാരിക രൂപകങ്ങളുണ്ട് ലിംഗ സമത്വം തീരെ ഇല്ലാത്ത സംസ്കാരങ്ങളിൽ ഇതിന്റെ സ്വാധീനം വളരെ അധികം ആയിരിക്കും അത്കൊണ്ട് നമ്മൾ സാംസ്കാരിക വ്യതിയാനങ്ങൾ ലിംഗാധിഷ്ഠിത സ്റ്റീരിയോടൈപ്പ്സ് ശരീര ഭാഷയുടെ ഉപയോഗവും അത് സന്ദര്ഭവത്കരിക്കുന്നതിന്റെ ആവശ്യകതയും എന്നിവയ്ക്കു പ്രത്യേക ഊന്നൽ നൽകും ഒരു ഭാഷ വാക്കുകളാലും വാക്യങ്ങളാലും ഖണ്ഡികകളാലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ശരീര ഭാഷയും അത് പോലെ വാക്കുകളാലും വാക്യങ്ങളാലും ഖണ്ഡികകളാലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഓരോ ആംഗ്യവും ഓരോ വാക്കു പോലെ ആണ് മാത്രമല്ല ഒരു വാക്കിനു പല അർഥങ്ങൾ ആകാം ഇവിടെ ഞാൻ അലൻ പീസ് ഉപയോഗിച്ച ഒരു ഉദാഹരണം പറയാം അദ്ദേഹം ഇംഗ്ലീഷ് വാക്കായ ഡ്രെസ്സിങ് നെ കുറിച്ച പറയുന്നത് അതിനു പത്തു അർഥങ്ങൾ എങ്കിലും ഉണ്ടെന്നാണ് വസ്ത്രം അണിയുന്നത് ഭക്ഷണത്തിൽ സോസ് ചേർക്കുന്നത് കോഴിയിറച്ചിയുടെ അകത്തു നിറക്കുന്നത് തുടങ്ങി അനേകം അർഥങ്ങൾ ഒരു നിസ്സാര വാക്കായ വുഡിന് പോലും പല അർത്ഥങ്ങളും വ്യംഗ്യാർത്ഥങ്ങളും ഉണ്ടാകാം അതിനാൽ ഒരൊറ്റ വാക്കിൽ നിന്ന് യഥാർത്ഥ അർഥം വ്യക്തമാവില്ല ഒരു ആംഗ്യം ഒരു വാക് പോലെയാണ് നമ്മുടെ മുഖം ഒന്നു ചുളിഞ്ഞാൽ അത് ഒരു വാക് പോലെയാണ് ശരീര ഭാഷയിൽ ഒരു വാക്യത്തിനു തുല്യമാണ് ഒരു കൂട്ടം ആംഗ്യങ്ങളുംവുഡിന് തടികാട് പല അർഥങ്ങൾ കാണും ഒരു വാക്കിനെ നമ്മൾ വാക്യത്തിൽ പ്രയോഗിച്ചാൽ അതിന്റെ അർഥം കൂടുതൽ വ്യക്തമാകും "എനിക്ക് ഒരു കഷ്ണം വുഡ് തടി വേണം" നമ്മൾ ഒരാളുടെ ചിരി ശ്രദ്ധിച്ചാലോ ചലനം നോക്കിയാലോ അവരുടെ പാരാലാങ്ക്വേജ് ശ്രദ്ധിച്ചാലോ അത് ഒരു വാക്യം പോലെ നമുക്ക് വ്യക്തത തരുന്നു എനിക്ക് ഒരു കഷ്ണം വുഡ് വേണം എന്തൊരു ചൂടാണ് നമുക്ക് ഉദ്യാനത്തിൽ തീ കായാം ഇപ്പോൾ ഇത് ശരിയായ വാക്കുകൾ ഉള്ള ഒരു ഖണ്ഡികയായി മാറിയിരിക്കുന്നു വാച്യ ഭാഷയിൽ ഖണ്ഡിക ചെയ്യുന്ന അതേ ധർമ്മം വാചികേതര ആശയവിനിമയത്തിൽ സാംസ്കാരിക വ്യതിയാനങ്ങളും ലിംഗാധിഷ്ഠിത സ്റ്റീരിയോടൈപ്പ്സും സമയത്തിന്റെ ഇടവേളയും ചേർന്നു ചെയ്യുന്നു നമ്മൾ ഒരാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ സാംസ്കാരിക വ്യതിയാനങ്ങളും ലിംഗാധിഷ്ഠിത സ്റ്റീരിയോടൈപ്പ്സും ശ്രദ്ധിച്ച് അത് അവഗണിക്കാൻ പഠിച്ചാൽ കുറച്ചു സമയം ഒരാളുടെ ശരീര ഭാഷ കൂടി പഠിച്ചാൽ അത് ഒരു പാരഗ്രാഫിനുശരീര ഭാഷ സന്ദര്ഭവത്കരിക്കുന്നതിന്റെ ആവശ്യകത ഇതിൽ നിന്ന് നമുക്ക് മനസിലാക്കാം ശരീര ഭാഷയെ കുറിച് ഒരു പ്രസംഗം കേട്ടിട്ടോ പോപ്പുലർ പുസ്തകം വായിച്ചിട്ടോ ഒരാളുടെ ശരീര ഭാഷ പഠിക്കാൻ വല്യ പ്രലോഭനം തോന്നാം ഉദാഹരണത്തിന് ഞാൻ എന്റെ മൂക്ക് തിരുമ്മിയാൽ അതൊരു അഭിപ്രായവ്യത്യാസമായി കാണാം അത് നമ്മൾ പിന്നീട് പഠിക്കും എന്നാൽ ചിലപ്പോൾ എനിക്ക് കടുത്ത ജലദോഷം ഉള്ളത് കൊണ്ടാകാം എന്നാൽ നമുക്ക് ഒരു ചെറിയ വശം മാത്രം പഠിച്ചു തിരക്കിട്ടു ഒരു നിശ്ചിത അർത്ഥത്തിൽ എത്താതിരിക്കാൻ ശ്രമിക്കാം അത്കൊണ്ട് നമ്മൾ ശരീര ഭാഷയുടെ സന്ദർഭത്തെ അവഗണിച്ചാൽ നമ്മൾ തെറ്റിദ്ധാരണയുടെ ആപത്തു ക്ഷണിച്ചു വരുത്തും കരോൾ ഗോമാൻ പ്രദിപാതിച്ച മറ്റുള്ളവരുടെ ശരീര ഭാഷ പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്ന അഞ്ച് പൊതുവായ തെറ്റുകൾ ഇവിടെ പറയാംനമ്മൾ സന്ദർഭം അല്ലെങ്കിൽ പശ്ചാത്തലം പരിഗണിക്കാൻ മറന്നു പോകാം ഒരൊറ്റ ആംഗ്യത്തിൽ നിന്നും അർഥം ഗ്രഹിക്കാൻ നോക്കിയേക്കാം നമ്മൾ കൂടുതൽ വാചിക ആശയവിനിമയത്തിൽ ശ്രദ്ധിച്ചേക്കാം ഒരാളുടെ തുടക്കം അറിയാതെ അയാളെ അളക്കാൻ ശ്രമിക്കാം നമ്മുടെ സാംസ്കാരിക മുൻവിധികൾ ഉപയോഗിച്ച് മറ്റൊരാളുടെ ശരീര ഭാഷയെ വിലയിരുത്താം ഈ ലെക്ച്ചറിൽ നമ്മൾ ശരീര ഭാഷയുടെ അടിസ്ഥാന വ്യാഖ്യാനം ഒരു അധ്യയന ശാഖയായി ശരീര ഭാഷയുടെ വളർച്ച അതിന്റെ പ്രാധാന്യം സാധ്യതകൾ പല തലങ്ങൾ എന്നിവ ചർച്ച ചെയ്തു നമ്മുടെ അടുത്ത ലെക്ച്ചറിൽ നമ്മൾ ഈ വിവിധ ഭാഗങ്ങളുടെ വിശദമായ ചർച്ച തുടരും